ദുരിതമോചനത്തിന്റെയും പുനർനിർമ്മാണത്തിന്റെയും കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാം സതീഷ് ടി റൂർക്കി യിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിങ് ലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോവുന്നത് നേപ്പാൾ റിക്കവറി കേസിലെ പുനർനിർമ്മാണത്തെ കുറിച്ചാണ് അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ പോകുന്നതെന്തും അത് 2016 ൽ പ്രസിദ്ധീകരിച്ച ദക്ഷിണേഷ്യൻ ദുരന്ത റിപ്പോർട്ടിൽ നിന്നുള്ളതാണ് ഇവ BBB യെ കുറിച്ചാണ് അതായത് ബിൽഡ് ബാക്ക് ബെറ്റർ വ്യത്യസ്തമായ പഠനങ്ങൾ എങ്ങനെ വ്യത്യസ്ത പാഠങ്ങൾ സൃഷ്ടിക്കുന്നു നമുക്ക് എന്തെല്ലാം തിരിച്ചെടുക്കാം അതിൽ നിന്ന് നമുക്ക് എങ്ങനെ പഠിക്കാം കാരണം ഓരോ ദുരന്താനുഭവങ്ങളും നമുക്ക് ഭാവിയിലേക്ക് ഏറ്റെടുക്കാനുള്ള ചില പാഠങ്ങൾ നൽകുന്നു ദുർയോഗ് നിവാരൺ സെക്രട്ടേറിയറ്റ്ആണ് ഇത് പ്രസിദ്ധീകരിച്ചത് ഒരു തീം എന്ന നിലയിൽ ബിൽഡ് ബാക്ക് ബെറ്റർ ആശയത്തെക്കുറിച്ചുംസൌത്ത് ഏഷ്യൻ മേഖലയിലെ വിവിധ ദുരന്ത സന്ദർഭങ്ങളിൽ ഇത് എങ്ങനെ നടപ്പാക്കി എന്നതിനെ കുറിച്ചും ആണ് ഇത് 2015 ൽ നേപ്പാളിൽ ഉണ്ടായ ഭൂകമ്പം പിന്നെ 2014 ൽ ശ്രീലങ്കയിൽ ഉണ്ടായ മെറിയാബെഡ്ഡ മണ്ണിടിച്ചിൽഉത്തരഖണ്ഡ് ലെ വെള്ളപ്പൊക്കം സൈക്ലോൺ ഫെയിലിൻ 2013ലെ ഇന്ത്യൻ ജോഗ്രഫി യിൽ നിന്നുള്ള സൈക്ലോൺ ഹുദ്ഹുദ് 2007 ലും 2011 ലും ബംഗ്ലാദേശിൽ ഉണ്ടായ സൈക്ലോൺ സിദ്ർഉം സൈക്ലോൺ ഐല 2012 ലും 2013 ലും പാകിസ്ഥാനിൽ ഉണ്ടായ മൺസൂൺ വെള്ളപ്പൊക്കം തുടങ്ങിയവ എല്ലാം ഉൾകൊള്ളിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് അതിനാൽ 2007 മുതൽ 2015 വരെയുള്ള കാലഘട്ടം പരിശോധിച്ചാൽ ഏതാണ്ട് 7 മുതൽ 8 വർഷം വരെ സൌത്ത് ഏഷ്യൻ പശ്ചാത്തലത്തിൽ പലതരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടായാതായി നമുക്ക് കാണാൻ കഴിയും പാകിസ്ഥാൻശ്രീലങ്ക ഇന്ത്യ ബംഗ്ലാദേശ് നേപ്പാൾ തുടങ്ങിയ വ്യത്യസ്ത രാജ്യങ്ങൾ ആണെങ്കിലും നമുക്ക് ചില സമാനതകൾ ഉണ്ട്സാംസ്കാരിക വശം മാത്രമല്ല നമ്മുടെ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലത്തിലും ദുർബലമായ പശ്ചാത്തലത്തിലും വികസന ക്രമീകരണത്തിലും നമ്മൾ ചില സമാനതകൾ പങ്കിടുന്നു നെതർലാൻഡിൽ നടക്കുന്ന കാര്യങ്ങളുമായി താരതമ്യപ്പെടുത്തുന്നതിനുപകരം സമാനമായ ഭൂമിശാസ്ത്രത്തിലുംസമാനമായ ദുർബലമായ സന്ദർഭത്തിലും സമാനമായ വികസന സന്ദർഭത്തിലും താരതമ്യം ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് ഈ ബിൽഡ് ബാക്ക് ബെറ്റർ സമീപനങ്ങൾ എങ്ങനെയാണ് സ്വീകരിച്ചിരിക്കുന്നത്മികച്ച രീതിയിൽ കെട്ടിപ്പടുക്കുന്നതിനുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്അത് നിയമപരമായ വെല്ലുവിളിയായാലും സ്ഥാപന തലത്തിലുള്ള വെല്ലുവിളിയായാലും ഇക്കാര്യങ്ങൾ ഒക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇന്നത്തെ ലെക്ച്ചറിൽ 2015 ഏപ്രിലിൽ ഉണ്ടായ നേപ്പാൾ ഭൂകമ്പത്തിന്റെ വീണ്ടെടുപ്പിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി ഇതിനു മുൻപും ഡൽഹിയിൽ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ ന്യൂ ഡൽഹിയും School of Planning and Architecture New Delhi ഇതിന്റെ ഭാഗമാണ് തുടക്കത്തിൽ ഈ റിപ്പോർട്ട് ബിൽഡ് ബാക്ക് ബെറ്റർ എന്നതിന്റെ സാമ്യതകളെയും പൊരുത്തക്കേടുകളെയും കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന ആശയത്തെ കുറിച്ച് അതിനാൽ അവർ കുറച്ച് വാക്കുകൾ മാറ്റാൻ ശ്രമിക്കുന്നു കൂടാതെ ഈ ഓരോ പദങ്ങളും എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് അവതരിപ്പിക്കാനും അവർ ശ്രമിക്കുന്നു നമ്പർ 1 ബാക്ക് ടു ബിൽഡിംഗ് ബെറ്റർഇത് ഒരു ദുരന്തം ഉണ്ടാവുമ്പോഴോ അല്ലാതെയോ ഒരു സാധാരണ നിർമ്മാണ രീതിയായ ബേസ് ലൈൻ കണ്ടീഷനുകളെ സൂചിപ്പിക്കുന്നു ഉദാഹരണത്തിന് DRR അഥവാ ക്വാളിറ്റിസ് ഓഫ് റെസിലിഎൻസ് ൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ബിൽഡിംഗ് പ്രാക്ടീസ് നമുക്ക് ഇല്ലെങ്കിൽ ഒരു ദുരന്തത്തിന് ശേഷം ഒറ്റരാത്രികൊണ്ട് ഈ സമ്പ്രദായം മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല അതിനാൽ ഇതാണ് ആദ്യത്തെ ആശയം അതേസമയം ബെറ്റർ ബിൽഡിംഗ് ബാക്ക്ഇത് പറയുന്നത് വീണ്ടെടുക്കാൻ ഉള്ള അടിയന്തിരാവസ്ഥ യെ കുറിച്ചാണ് ഒരു ദുരന്തം നടക്കുന്ന സമയത്ത്സങ്കൽപ്പിക്കുക ഒരു ദുരന്തത്തിന് ശേഷം നമ്മൾ അത് വളരെ സാവധാനത്തിലാണ് ചെയ്യുന്നതെങ്കിൽ പിന്നീട് മെച്ചമായി പുനർനിർമ്മിക്കുക എന്ന വ്യാജേന നിന്നാൽഅത് സമൂഹത്തിന്റെ ചെറുത്തുനിൽപ്പിൽ വിട്ടുവീഴ്ച ചെയ്യും കാരണം മന്ദഗതിയിലുള്ള പ്രക്രിയ സമൂഹത്തിന്റെ ചെറുത്തുനിൽപ്പിൽ വിട്ടുവീഴ്ച ചെയ്യും അങ്ങനെയാണ് രണ്ടാമത്തെ ആശയം പ്രവർത്തിക്കുന്നത് മൂന്നാമത്തെ ആശയം ബിൽഡ് ബാക്ക് ബെറ്റർ ആണ് ഇതാണ് നമ്മുടെ കോഴ്സിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് ഇത് ഭൌതിക അർത്ഥത്തിൽ മാത്രമല്ല നിങ്ങൾക്ക് അറിയാമല്ലോ ഞങ്ങൾ അടിസ്ഥാന സൌകര്യങ്ങൾ നിർമ്മിക്കുന്നു ഭവനങ്ങൾ നിർമ്മിക്കുന്നു സ്കൂളുകൾ നിർമ്മിക്കുന്നുആശുപത്രി നിർമ്മിക്കുന്നു ഇത് ഭൌതിക അർത്ഥത്തിൽ മാത്രമല്ല എന്നാൽ കൂടുതൽ പൂർണ്ണമായ അർത്ഥത്തിൽ റിക്കവറിയുടെ മറ്റ് സാമൂഹിക മാനങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നു നമുക്ക് എങ്ങനെ കഴിവുകൾ ഉണ്ടാക്കാം എങ്ങനെ നമുക്ക് വിശ്വാസം കെട്ടിപ്പടുക്കാം എങ്ങനെ നമുക്ക് വിശ്വാസ വ്യവസ്ഥകൾ വികസിപ്പിക്കാം നമുക്ക് എങ്ങനെ സഹകരണം വികസിപ്പിക്കാം പങ്കാളിത്തം എങ്ങനെ വികസിപ്പിക്കാം നമുക്ക് എങ്ങനെ സാമൂഹിക മൂലധനം വർദ്ധിപ്പിക്കാം അതിനാൽ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഭൌതിക അർത്ഥത്തിൽ മാത്രം പരിമിതപ്പെടുത്താതെഅതിലെ സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവുമായ എല്ലാ വശങ്ങളും സമഗ്രമായ അർത്ഥത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് ഇവിടെയാണ് നമ്മൾ ബിൽഡ് ബാക്ക് ബെറ്റർ നെ കുറിച്ച് സംസാരിക്കുന്നത് 2004ലെ സുനാമിക്ക് ശേഷംമൾട്ടിനാഷണൽ റിക്കവറി ഇഫക്റ്റിന്റെ സമയത്ത് ഇത് ഒരു തീം ആയി മാത്രമല്ല ഒരു ഫ്രെയിംവർക്ക് ആയി ഉയർന്നു കാരണം ഓരോ രാജ്യവും ദുരന്തനിവാരണത്തിൽ അവരുടേതായ ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു ഇതിന്റെ ഉദ്ദേശം ഒരു സമൂഹത്തിന്റെ ഭൌതിക സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾക്കൊപ്പം മെച്ചപ്പെട്ട ചെറുത്തുനിൽപ്പ് സൃഷ്ടിക്കുന്നതിന് കൂട്ടായി അഭിസംബോധന ചെയ്യപ്പെടുന്ന ഒരു സമഗ്രമായ സമീപനംപുനർനിർമ്മാണ റിക്കവറി ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കണം എന്നതാണ് അതിനാൽ നമ്മൾ ഭവന നിർമ്മാണം മാത്രമല്ല റോഡുകൾ നിർമ്മിക്കുക മാത്രമല്ല അടിസ്ഥാന സൌകര്യങ്ങൾ നിർമ്മിക്കുക മാത്രമല്ല സാമൂഹിക സാമ്പത്തിക ശേഷികളും നമ്മൾ കൈകാര്യം ചെയ്യുന്നു തുടർന്ന് ഈ മുഴുവൻ സജ്ജീകരണം എങ്ങനെ ചെറുത്തു നിൽപ്പ് മെച്ചപ്പെടുത്തും എന്തിനുള്ള ചെറുത്തു നിൽപ്പ് ദുരന്തം നിമിത്തം മാത്രമല്ല മറ്റ് ദുർബലമായ വശങ്ങൾ കൊണ്ടും അടിച്ചേൽപ്പിക്കപ്പെട്ട ഭാവി ആഘാതങ്ങളെയും സമ്മർദ്ദങ്ങളെയും ചെറുത്തുനിൽക്കാൻ വേണ്ടി അത് ഒരു മാർക്കറ്റ് പ്രശ്നമാവാം രാഷ്ട്രീയ പ്രതിസന്ധി ആവാം യുദ്ധം ആവാം അതിനാൽ എങ്ങനെ നമുക്ക് അവരെ തയ്യാറാക്കാം അതിലൂടെ അവർക്ക് അതിനെ നേരിടാൻ കഴിയും BBB അഥവാ ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന് നമ്മൾ ഇതിനെ വിളിക്കുന്നത് ഇങ്ങനെയാണ് മുൻ ക്ലാസുകളിൽ നമ്മൾ ഇതിനകം ചർച്ച ചെയ്ത സെൻഡായി ഫ്രെയിംവർക്ക് ഓഫ് ആക്ഷനിൽ 16 മുൻവ്യവസ്ഥകൾ ഉണ്ട് അവ 6 തീമുകൾക്ക് കീഴിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു കാരണം റെസിലിയൻസ് മെച്ചപ്പെടുത്തുന്നതിന് ഓരോ രാജ്യവും ചില പ്രവർത്തന പദ്ധതികൾ സംയോജിപ്പിക്കേണ്ടതുണ്ട്ഈ 16 മുൻവ്യവസ്ഥകൾ അഭിസംബോധന ചെയ്യുന്നതിന് അവയെ എങ്ങനെ വ്യത്യസ്ത തീമുകളായി തരംതിരിച്ചിരിക്കുന്നു നമ്പർ ഒന്ന് ഗവൺമെന്റാണ് ഗവൺമെന്റ് ആസ്പെക്ട് നെ കുറിച്ച് സംസാരിക്കുമ്പോൾ മതിയായ നാഷണൽ സ്കെയിൽ നിയമങ്ങളെ ക്കുറിച്ചാണ് അത് സംസാരിക്കുന്നത് റെഗുലേറ്ററി മെക്കാനിസവും ബിൽഡിംഗ് കോഡുകളും എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് അറിയാമോ ബിൽഡിംഗ് കോഡുകൾ എങ്ങനെ മെച്ചപ്പെടുത്താം അതിന്റെ ദുരന്ത പ്രതിരോധ ആസ്പെക്റ്റിലേക്ക് ഭൂവിനിയോഗ ആസൂത്രണം സ്ഥാപനങ്ങൾ കൂടാതെ നമ്മൾ കോഡുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെയാണ് ഏകീകൃത അപകടസാധ്യതയെക്കുറിച്ചുള്ള ഏകീകൃത ധാരണയുംദുർബലത വിലയിരുത്തൽ നടപടിക്രമങ്ങളും അത് അഭിസംബോധന ചെയ്യുന്നത് രണ്ടാമതായി നമ്മൾ സംസാരിക്കുന്നത് സമ്പദ്വ്യവസ്ഥയെ ക്കുറിച്ചാണ് ഇവിടെയാണ് നമ്മൾ ഇൻഷുറൻസിനെ കുറിച്ചും നിർമ്മാണത്തിന് വേണ്ടിയുള്ള മറ്റ് റിസ്ക് ഷെയറിങ് പൊതു സ്വകാര്യ ധനകാര്യത്തെ കുറിച്ചും സംസാരിക്കുന്നത് കാരണം നിർമ്മാണത്തിന് വേണ്ടിയുള്ള ധനസഹായം ആര് നൽകും എന്തൊക്കെ ഘട്ടങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത അർജന്റീനയിലെ വ്യത്യസ്ത സന്ദർഭങ്ങളിലെ പോലെവിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള നാല് കഫേ ഫണ്ടുകൾ എങ്ങനെയാണ് ഉപയോഗിച്ചത് അതേസമയം പൊതു സ്വകാര്യ പങ്കാളിത്തം ഒരുമിച്ചുവരുന്നുഅവർ അടിസ്ഥാന സൌകര്യങ്ങളെ പിന്തുണയ്ക്കുകയും ബിസിനസ്സ് പ്രതിരോധത്തിന് പിന്തുണ നൽകുകയും ചെയ്യുന്നു ഇനി മൂന്നാമത്തെ ആസ്പെക്ട് പരിസ്ഥിതിശാസ്ത്രമാണ് ഇവിടെയാണ് പ്രകൃതിദത്ത ആവാസവ്യവസ്ഥയുടെ സംരക്ഷണത്തെ കുറിച്ച് പറയുന്നത് ആവാസവ്യവസ്ഥയെ ദുരന്തത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് അത് എത്ര പ്രധാനമാണ് അതിനാൽ ഇവിടെയാണ് ഭൂവിനിയോഗ ആസൂത്രണവുംഭൂമിയുടെ നശീകരണം മാറ്റുന്നതിനുള്ള നടപടികളും നമുക്ക് എങ്ങനെ പ്രത്യാഘാതങ്ങൾ മാറ്റാം പ്രകൃതിയെ എങ്ങനെ തിരികെ കൊണ്ടുവരാം എന്നിവയെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഇവയെല്ലാം ഈ സെൻഡായി ഫ്രെയിംവർക്കിലെ സമവായത്തിന്റെ ഭാഗമാണ് സുരക്ഷാ നെറ്റുകളും അവശ്യ സേവനങ്ങളും അതിനാൽ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് സംസാരിക്കാം എച്ച് വി മാതൃ ആരോഗ്യം ഭക്ഷ്യസുരക്ഷ പോഷകാഹാരം പാർപ്പിടം എന്തുകൊണ്ടാണ് നമ്മൾ സുരക്ഷാ നെറ്റുകളെ കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും സംസാരിക്കുന്നത് കാരണം ഇതിൽ ഭൂരിഭാഗവും പാവപ്പെട്ടവരാണ് ആരോഗ്യ ഇൻഫ്രാസ്ട്രക്ചറിന്റെ മെഡിക്കൽ സൌകര്യങ്ങളിലേക്ക് അവർക്കുള്ള പ്രവേശനം പരിമിതമാണ് അതിനാൽ അവർക്ക് അടിസ്ഥാന ആവശ്യങ്ങളും അവശ്യ സേവനങ്ങളും നൽകുന്നതിന് ദാരിദ്ര്യത്തിന്റെ വശവും നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട് അവിടെയാണ് നമ്മൾ ദുർബല വിഭാഗങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അതായത് പ്രത്യേക ശ്രദ്ധ ആവശ്യം ഉള്ള HIV യോ അല്ലെങ്കിൽ മറ്റു വിട്ട് മാറാത്ത അസുഖമോ ഉള്ളവർഉപജീവനമാർഗവുമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത പ്രായമായ ആളുകൾചില സമ്മർദ്ദങ്ങളും ആഘാതങ്ങളും നേരിടാൻ കഴിയാത്ത ആളുകൾഉൾകൊള്ളുന്ന വിഭാഗങ്ങൾ അപ്പോൾ ആരാണ് ഈ ദുർബലരായ ആളുകൾ ജനവാസ കേന്ദ്രങ്ങൾ കാരണം ദുരന്തങ്ങൾ പോലുള്ള കേസുകളിൽ പലരും പല സ്ഥലങ്ങളിലേക്ക് കുടിയേറുകയും അവർ സ്ഥിരതാമസമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇവിടെയാണ് നമുക്ക് ടൈലറിംഗ് കെട്ടിടവിനിയോഗംഭൂവിനിയോഗം അനൌപചാരിക സെറ്റിൽമെന്റുകളിൽ സാധ്യമാകുന്ന കോഡുകൾ എന്നിവയെക്കുറിച്ച് സംസാരിക്കേണ്ടത് അതിനാൽ ഈ സൌത്ത് ഏഷ്യൻ ഡിസാസ്റ്റർ റിപ്പോർട്ട് എന്താണ് ഇത് ലക്ഷ്യമിടുന്നത് ഈ 4 ആസ്പെക്ടുകൾ വിശകലനം ചെയ്യാൻ ഇത് ലക്ഷ്യമിടുന്നു ഒന്ന് സൌത്ത് ഏഷ്യയിലെ രാജ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇൻസ്റ്റിറ്റൂഷണൽറിസോർസസ് കപ്പാസിറ്റി എന്നീ ആസ്പെക്ട്കൾക്ക് എതിരായി സെൻഡായി ഫ്രെയിംവർക്കിന്റെ ബിൽഡ് ബാക്ക് ബെറ്റർ ശുപാർശകൾ എങ്ങനെ നിലനിൽക്കും എന്നതാണ് രണ്ടാമത്തേത്സെൻഡായ് ഫ്രെയിംവർക്കിൽ ഉയർത്തിപ്പിടിച്ച BBB തത്വങ്ങളും ശുപാർശകളും നൽകുന്നതിനുള്ള നിലവിലുള്ള സംവിധാനത്തിന്റെയുംറിക്കവറി സിസ്റ്റത്തിന്റെയും പുനർനിർമ്മാണ സിസ്റ്റത്തിന്റെയും കഴിവും താൽപ്പര്യവും അതിനാൽ അടിസ്ഥാനപരമായി BBB തത്വങ്ങൾക്കായി നിലവിലുള്ള സംവിധാനങ്ങൾ എങ്ങനെ സജ്ജീകരിക്കാൻ കഴിയും എന്നതിന്റെ ഒരു മാനദണ്ഡം പോലെയാണ് ഇത് ഇത് പ്രവർത്തനക്ഷമമാക്കുന്നതിൽ മൂലധനത്തിന്റെയും വികസന ഏജന്റുമാരുടെയും മറ്റ് ഇന്റെറെസ്റ്റ് ഗ്രൂപ്പുകളുടെയും പങ്ക് എന്താണ് ഇത് പറയുന്നത് ഇമ്പ്ലിമെന്റേഷൻ ആസ്പെക്റ്റിനെ കുറിച്ചാണ് ഈ വ്യത്യസ്ത മൂലധന വികസന ഏജന്റുമാർ ബിൽഡ് ബാക്ക് ബെറ്റർ മികച്ച രീതിയിൽ വിതരണം ചെയ്യുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനും എങ്ങനെ സ്വയം സംഘടിക്കുന്നു പിന്നെസൌത്ത്ഏഷ്യയിലെ പ്രബലമായ സ്ഥാപനപരവുംനയപരവുംരാഷ്ട്രീയപരവുമായ താൽപ്പര്യ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് BBB ശുപാർശകൾ എത്രത്തോളം അർത്ഥവത്താണ് എന്നതാണ് അവസാനത്തേത് അതിനാൽ ഇതെല്ലാം വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് നേപ്പാൾ ബംഗ്ലാദേശ് ശ്രീലങ്ക ഉത്തരാഖണ്ഡ് എന്നീ ഇന്ത്യൻ പശ്ചാത്തലവും ഹുദ്ഹുദ് ചുഴലിക്കാറ്റ്അതുപോലെ പാകിസ്ഥാൻ ഇവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നേപ്പാൾ ഭൂകമ്പത്തെ കുറിച്ചാണ് 2015 ഏപ്രിലിൽ നേപ്പാളിൽ 7 6 റിച്റ്റർ സ്കെലിൽവലിയ ഒരു ഭൂകമ്പം ഉണ്ടായി 1130 ന് അത് ഗോർഖ മേഖലയിൽ ആഞ്ഞടിച്ചു വീണ്ടും 1230 ന് ഏകദേശം 6 6 സ്കെയിൽ വീണ്ടും ഉണ്ടായി അതിനുശേഷം വീണ്ടും 16 തവണയിലധികം തുടർചലനങ്ങൾ ഉണ്ടായി അതിനാൽ 7 6 ൽ നിന്ന് ഏകദേശം 6 2 ആയി തീവ്രത കുറയാൻ തുടങ്ങി അങ്ങനെ ഭൂകമ്പ പ്രതിഭാസം ഈ പ്രത്യേക രാജ്യത്ത് വിവിധ ഭാഗങ്ങളിൽ ബാധിക്കുകയും തുടർചലനങ്ങൾ നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു ആഘാതങ്ങളുടെ സംഗ്രഹം ഇങ്ങനെ ആയിരുന്നു8896 ജീവനുകൾ നഷ്ടപ്പെടുകയും ഏകദേശം 22000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഏകദേശം 5 ലക്ഷത്തോളം സ്വകാര്യ വീടുകൾ നശിപ്പിക്കപ്പെട്ടു രണ്ട് ലക്ഷത്തോളം സ്വകാര്യ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഏകദേശം 2656 സർക്കാർ കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള പൊതുസ്വത്തുക്കൾക്ക് കേടുപാടുകൾ സംഭവിച്ചു നശിപ്പിക്കപ്പെട്ടു അതുപോലെ 3000 ത്തിലധികം വരുന്ന സർക്കാർ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു സ്കൂൾ കെട്ടിടങ്ങൾ സ്ഥാപനങ്ങൾ അവ വീണ്ടും നശിപ്പിക്കപ്പെട്ടു 19000 ത്തിലധികം കെട്ടിടങ്ങൾ നശിപ്പിക്കപ്പെട്ടു 11000 ൽ പരം കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഇപ്പോൾ നിങ്ങൾ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളുടെ കാറ്റഗറികൾ നോക്കുകയാണെങ്കിൽ ഗുരുതരമായ നാശനഷ്ടമുണ്ടായ പ്രദേശംഈ ഗോർഖ ഭൂമിയെക്കുറിച്ചാണ് കനത്ത പ്രതിസന്ധി ബാധിച്ചതും അതുപോലെ തന്നെ കനത്ത നഷ്ടം വരുത്തിയതും മിതമായ നാശനഷ്ടം വരുത്തിയതും ആയ പ്രദേശങ്ങൾ ഉണ്ട് ഇതേ പോലെ ആണ് അവയെ സോൺ തിരിച്ചത് ഗോർഖ മേഖലയിലെ ഈ പ്രത്യേക ഭാഗത്തെ ഇത് വളരെ മോശമായി ബാധിച്ചു ഇപ്പോൾ ഈ മുഴുവൻ പ്രക്രിയയുടെയും 2 പ്രധാന ഘട്ടങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ഒന്നാമത്തേത് തിരച്ചിൽരക്ഷാപ്രവർത്തനം ദുരിതാശ്വാസം എന്നിവയുള്ള ഘട്ടം ആണ് നേപ്പാളിന് ദുരന്ത നിവാരണ നടപടിക്രമങ്ങളുടെയും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങളുടെയും മികച്ച സംവിധാനമുണ്ട് ഇവിടെയാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ നടപടിക്രമങ്ങൾ അനുസരിച്ച് നാഷണൽ എമർജൻസി ഓപ്പറേഷൻ സെന്ററും ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്ററുകളും സജീവമാകുന്നത് ഇതിനെയാണ് SOP എന്ന് വിളിക്കുന്നത്ഇത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഇത് ദേശീയ സംവിധാനവും പ്രാദേശിക സംവിധാനവും തമ്മിലുള്ള ആശയവിനിമയം ഒരു ജില്ലാ തലത്തിൽ കൊണ്ടുവരുന്നു അതിനാൽ ഇത് ദുരന്ത വിവര ആശയവിനിമയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ദേശീയ തലം മുതൽ പ്രാദേശിക തലം വരെ അത് എങ്ങനെ ആശയവിനിമയം നടത്തും മാനേജ്മെന്റും വിവിധ ഏജൻസികളും എങ്ങനെ കോഓർഡിനേറ്റ് ചെയ്യണം അവിടെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെകോഓർഡിനേഷൻഉണ്ടാവുന്നത് ഈ പ്രക്രിയയ്ക്കിടയിൽ ഗവൺമെന്റ് ഒരുതരം സിംഗിൾ ഡോർ എൻട്രി നയം സ്വീകരിക്കേണ്ടതുണ്ട് കാരണം അവർക്ക് എല്ലാ ഫണ്ടിംഗ് സംവിധാനവും ചാനൽ ചെയ്യണം എല്ലാ എൻജിഒകളെയും അവർ ചാനൽ ചെയ്യണം എല്ലാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും അവർ ചാനൽ ചെയ്യണംഅങ്ങനെയാണ് അവിടെ ഒരു വൺ ഡോർ എക്സിറ്റ് ഓപ്ഷനുകൾഉണ്ടാവുന്നത് അതിനാൽ ഇരകളാരും ഒഴിവാക്കപ്പെടുന്നില്ലെന്നും ആർക്കും ആവർത്തിച്ചുള്ള പിന്തുണ ലഭിക്കുന്നില്ലെന്നും സർക്കാറിന് ഉറപ്പാക്കണം കാരണം ഏത് ദുരിതാശ്വാസ ഘട്ടത്തിലും ഇത് വളരെ സാധാരണമാണ് കാരണം ആ ഘട്ടത്തിൽ അവർക്ക് ലഭിക്കുന്ന ചില ആവശ്യങ്ങൾക്കായി ചില ആനുകൂല്യങ്ങൾക്കായി അവർ എപ്പോഴും കൊതിക്കുന്നു അതിനാൽ ഇതൊക്കെ സുതാര്യമായിരിക്കണം എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് കിട്ടിയ ആൾക്കാർക്ക് വീണ്ടും വീണ്ടും ലഭിക്കരുത് അതിനാൽ അവിടെ ഏകീകൃതവും വളരെ സുതാര്യവുമായ സ്വഭാവം ഉണ്ടായിരിക്കണം നിലവാരമില്ലാത്ത പാക്കേജുകൾ ആർക്കും ലഭിക്കരുത് ഒരാൾക്ക് വളരെ മികച്ച പാക്കേജ് ലഭിച്ചു മറ്റൊരാൾക്ക് വളരെ നിലവാരമില്ലാത്ത പാക്കേജ് ലഭിച്ചു അങ്ങനെ ഒന്നും ഉണ്ടാവരുത് ഡെലിവറിയുടെ ഗുണനിലവാരത്തിലായാലും അവർക്ക് ലഭിച്ച ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരത്തിലായാലും അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് അതിനാൽ ഈ പ്രക്രിയയിൽ എല്ലാം എങ്ങനെ കാര്യക്ഷമമാക്കണമെന്ന് ഒരു സർക്കാർ ഇത്തരത്തിലുള്ള ചാനലിൽ വാദിക്കുന്നു എന്നാൽ വാസ്തവത്തിൽ അവിടെ വ്യത്യസ്ത പങ്കാളി സംഘടനകളുണ്ട് അവർ അവരുടെ സ്ഥാപനപരമായ മാനദണ്ഡങ്ങളും തീരുമാനങ്ങളും അനുസരിച്ച് വ്യത്യസ്ത നിലവാരത്തിൽ ചരക്കുകളും സാമഗ്രികളും വിതരണം ചെയ്യുന്നുഅതേസമയം ചിലർ അന്താരാഷ്ട്ര നിലവാരം പിന്തുടരാൻ ശ്രമിക്കുന്നു അത്കൊണ്ട്തന്നെ ഉറപ്പായും ഇത് വളരെ ഏകീകൃതവും നിലവാരമുള്ളതുമായ മെറ്റീരിയലാകാൻസാധ്യത ഇല്ല അതിനാൽ ഓരോ ഓർഗനൈസേഷനുംഅവരുടെ കൈവശമുള്ള വിഭവങ്ങളുംഅവർ പിന്തുടരുന്ന മാനദണ്ഡങ്ങളും എന്തുമാകട്ടെ അവരുടെ ഏജൻസി സ്റ്റാൻഡേർഡുകൾ അല്ലെങ്കിൽ സ്ഥാപന മാനദണ്ഡങ്ങൾ അനുസരിച്ചു ഉൽപ്പന്നം എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ പ്രശ്നം എന്തെന്നാൽഈ പ്രത്യേക പ്രക്രിയ സ്റ്റാൻഡേർഡൈസ്ഡ് ആക്കിയിട്ടില്ല എന്നതാണ് ഇത് സ്റ്റാൻഡേർഡൈസ്ഡ് ചെയ്യപ്പെടാത്തതിന്റെ കാരണം ഇത് സംഘടിപ്പിക്കപ്പെട്ടിട്ടില്ല മാത്രമല്ല ഇത് നിയമ വ്യവസ്ഥയിൽ അഥവാ നിയമ നടപടിക്രമങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ഈ ദുരിതാശ്വാസ സാമഗ്രികൾ എങ്ങനെ സ്റ്റാൻഡേർഡൈസ്ഡ് ചെയ്യാം ഈ പാക്കേജുകൾ എങ്ങനെ സ്റ്റാൻഡേർഡൈസ്ഡ്ചെയ്യാം അതാണ് ഏറ്റവും പ്രധാന ഭാഗം ദുരന്തബാധിത സമൂഹങ്ങൾക്കായുള്ള നിയമനിർമ്മാണങ്ങളിൽ ദുരിതാശ്വാസ സാമഗ്രികളുടെ നിലവാരം കൂടി ഉൾപെടുത്തേണ്ടത് അത്യാവശ്യം ആണ് അതിനാൽ ഓരോ ഏജൻസിയും അവരുടേതായ രീതിയിൽ പ്രവർത്തിക്കുന്നു ഇതാണ് ഇൻപുട്ടിൽ ഒന്ന് ഇനി നമ്മൾ പറയുന്നത് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയെ കുറിച്ചാണ് നമ്മൾ അതിനെ NDMA എന്ന് വിളിക്കുന്നു ഇതിന് സബ് കമ്മിറ്റികൾഉണ്ട് പ്രീപേർഡ്നെസ് മാനേജ്മെന്റ് കമ്മിറ്റി റെസ്ക്യൂ ആൻഡ് റിലീഫ് മാനേജ്മെന്റ് കമ്മിറ്റി റിഹാബിലിറ്റേഷൻ ആന്റ് റീകൺസ്ട്രക്ഷൻ കമ്മിറ്റി ഇത് അതിന്റെതായ സമയ പ്രക്രിയയിൽ നടക്കുന്നു ഇപ്പോൾ റെസ്ക്യൂ ആൻഡ് റിലീഫ് മാനേജ്മെന്റ്പ്രവർത്തനങ്ങളിൽ വളരെ കാലപ്പഴക്കമുള്ള ഒരു ബില്ലാണ് അവരുടെ പക്കലുള്ളത് 1982 ലെ നാച്ചുറൽ കലാമിറ്റി റിലീഫ് ആക്ട് എന്ന ഒരു നിയമം നിലവിലുണ്ട് ഈ നിയമത്തിന് ഈ നടപടിക്രമങ്ങളുംഭൂകമ്പത്തിന് ശേഷമുള്ള നിലവിലെ അവസ്ഥകളുടെ പാക്കേജുകളും സ്ഥാപിക്കുന്നതിൽ വളരെ പരിമിതമായ സ്കോപ്പ് മാത്രം ആണുള്ളത് കാരണം അത് വലിയ ഭൂകമ്പങ്ങളിലൊന്നാണ് അഭിസംബോധന ചെയ്യപ്പെടാത്ത ചില സാഹചര്യങ്ങൾ അവിടെയുണ്ട് മാത്രമല്ല അവരുടെ ആവശ്യം ഉയർന്നതുമാണ് ഈ ഭൂകമ്പത്തിന് ശേഷം ഈ പ്രത്യേക ബിൽ വിവിധ ചർച്ചകൾക്ക് വേണ്ടി പാർലമെന്റിൽ എത്തി ഇത് വരെ ഇത് ഒരു നിയമമായി രൂപപ്പെടുത്തിയിട്ടില്ല അതിനാൽ ഈ പാഠങ്ങൾ പോളിസി യുടെ അടിസ്ഥാനത്തിൽബില്ലുകളുടെ അടിസ്ഥാനത്തിൽമുന്നോട്ട് കൊണ്ടുപോകേണ്ടത് വളരെ പ്രധാനമാണ് എന്നിട്ട് നിയമപരമായ ദിശാബോധം നൽകുന്ന നിയമങ്ങൾ രൂപപ്പെടുത്തണം അത് എങ്ങനെ ചെയ്യണം എങ്ങനെ സമീപിക്കണം എന്ത് ചെയ്യണംപ്രോട്ടോക്കോളുകളും നടപടിക്രമങ്ങളും സ്ഥാപിക്കുന്ന നടപടിക്രമങ്ങൾ നമ്മൾ ഏത് വിധത്തിലാണ് ചെയ്യേണ്ടത് പിന്നെ ദുരന്തങ്ങളെയും വികസനത്തെയും എങ്ങനെ ബന്ധിപ്പിക്കാം എന്നതിന്റെ രസകരമായ ഒരു ആസ്പെക്ട് നേപ്പാളിനുണ്ട് ഒന്ന് അവർക്ക് LDRMP ഉണ്ട്അതായത് ലോക്കൽ ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് പ്ലാനിംഗ് ദേശീയ തലത്തിലുള്ള മാർഗദർശനം എങ്ങനെയാണ് പ്രാദേശിക തലത്തിലുള്ള മാർഗ്ഗദർശനം ആയി ന് വിവർത്തനം ചെയ്യപ്പെടുന്നത് അവിടെയാണ് ഈ ആസൂത്രണ മാർഗനിർദേശങ്ങൾ ഉള്ളത് അതിനാൽ ഇത് യഥാർത്ഥത്തിൽ ദുരന്തങ്ങളെയും വികസനത്തെയും ബന്ധിപ്പിക്കും കാരണം നിങ്ങൾ 1980 കളിലെ ഫ്രെഡറിക് കുനിയുടെ ലിറ്ററേച്ചർ നോക്കിയാൽഅവിടെ അദ്ദേഹം ദുരന്തങ്ങളും വികസനവും തമ്മിലുള്ള ഡിസ്കണക്ഷനെ കുറിച്ച് സംസാരിക്കുന്നു ദുരന്തങ്ങളും വികസനവും പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ അവ പ്രക്രിയയുടെ ഭാഗമാണ് ചില കേസുകളിൽ ചില കൌൺസിലുകളിൽ അവർക്ക് ഈ LDRMP ഉണ്ട് അതായത് ലോക്കൽ ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് പ്ലാനിങ് ഗൈഡ്ലൈൻസ് എന്നാൽ അവരിൽ പലർക്കും പ്ലാൻ ഇല്ല അതിനാൽ ഇത് കൊണ്ട് എന്തുചെയ്യും കൂടാതെ ലോക്കൽ അതോറിറ്റികളുംപ്ലാനും ഉള്ള കൌൺസിലുകൾ ഉണ്ടെങ്കിലുംവിഭവങ്ങൾ എങ്ങനെ സമാഹരിക്കാംകഴിവുകൾ എങ്ങനെ ഉണ്ടാക്കാം എന്നിവയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് മതിയായ അംഗീകാരം ഒന്നും ലഭിച്ചില്ല അതായത് അതിനർത്ഥം ലോക്കൽ കപ്പാസിറ്റിഎങ്ങനെ നടപ്പിലാക്കാം എന്നുംഎങ്ങനെ വർധിപ്പിക്കണമെന്നും ലോക്കൽ മുനിസിപ്പാലിറ്റികൾക്ക്മാർഗ്ഗനിർദ്ദേശം നൽകാൻ ഇത് പര്യാപ്തമല്ല എന്നാണ് വിഭവങ്ങൾ കഴിവുകൾ അധ്വാനം സാമഗ്രികൾ എന്നിവ എങ്ങനെ സമാഹരിക്കാം എന്ന് ഇത് വ്യക്തമായി പരാമർശിച്ചിട്ടില്ല അതുപോലെ ഡിപിആർപി മാർഗ്ഗനിർദ്ദേശമായ ദുരന്ത നിവാരണത്തെക്കുറിച്ചും പ്രതികരണ പദ്ധതിയെക്കുറിച്ചും ചില നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആഘാതത്തിന് ശേഷം കാരണം ഇത് 7 6 റിച്റ്റർ സ്കെയിലിൽ ഉണ്ടായ വലിയ ഒരു ആഘാതമാണ് കൂടാതെ തുടർചലനങ്ങളും ഉണ്ടായപ്പോൾനിയമപരമായ രേഖകൾ എന്തുതന്നെയായാലും പ്രായോഗികമായി പ്രയോഗിക്കാൻ അവ പൂർണ്ണമായും പര്യാപ്തമല്ല കാരണം ഈ പ്രത്യേക സാഹചര്യത്തിൽ വെല്ലുവിളികൾ വളരെ സങ്കീർണ്ണമായിരുന്നു ഇവിടെയാണ് ഒരാൾ ഈ പാഠങ്ങൾ പഠിക്കുകയും അതിനെ നിയമപരമാക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ നേപ്പാളിന്റെ പുനർനിർമ്മാണത്തെയും വീണ്ടെടുക്കലിനെയും കുറിച്ച് സംസാരിക്കുന്നു അതിനാൽ ഒന്നാമതായി അത് ഒരു പോസ്റ്റ് ഡിസാസ്റ്റർ റിക്കവറി ഫ്രെയിംവർക്ക് post disaster recovery framework സ്വീകരിച്ചു അതിനെ നമ്മൾ PDRF എന്ന് വിളിക്കുന്നു അവർക്ക് ചില വീക്ഷണങ്ങൾ ഉണ്ട് അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് ഇപ്പോൾ ആദ്യം ചെയ്യേണ്ടത് റിക്കവറി വീക്ഷണങ്ങളും തന്ത്രപരമായ ലക്ഷ്യങ്ങളും സ്ഥാപിക്കുക എന്നതാണ് അതിനാൽ ഏതൊരു ഫ്രെയിംവർക്കിന്റെയും ആദ്യത്തേതും പ്രധാനവുമായ ഭാഗം അതിന് വ്യക്തമായ കാഴ്ചപ്പാടുംതന്ത്രപരമായ ലക്ഷ്യവുംവീണ്ടെടുക്കലിനും പുനർനിർമ്മാണത്തിനും ആവശ്യമായ വ്യക്തമായ നയവും ഉണ്ടായിരിക്കണം എന്നതാണ് റിക്കവറിക്കുംപുനർനിർമ്മാണത്തിനും ഇൻസ്റ്റിട്യൂഷണൽ ഫ്രെയിംവർക്കുമുണ്ട് അങ്ങനെയെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ സജ്ജീകരണം എങ്ങനെയാണ് ഒരു മാനേജ്മെന്റ് പ്രക്രിയയിലൂടെ അത് യഥാർത്ഥത്തിൽ എങ്ങനെ വാദിക്കാം ഇവിടെയാണ് റിക്കവറിക്കും പുനർനിർമ്മാണത്തിനുമുള്ള ക്രമീകരണങ്ങൾ ഉള്ളത് ഇത് എങ്ങനെ ധനസഹായം നൽകാം ധനസഹായം അതിന്റെ സാമ്പത്തിക മാനേജ്മെന്റ് എന്നിവയാണ് പ്രധാന ഭാഗങ്ങളിലൊന്ന് പല കേസുകളിലുംദുരന്തത്തിനു ശേഷം വിവിധ രാഷ്ട്രീയ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് ഫണ്ട് മിസ്മാനേജ് ചെയ്യുന്നത് ഈ ഫണ്ടുകൾഎങ്ങനെ വിതരണം ചെയ്യാം അത് എങ്ങനെ ചർച്ച ചെയ്യാം ഈ കാര്യങ്ങൾ എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യാം ഈ പ്രക്രിയയിൽ എങ്ങനെ യോജിപ്പുണ്ടാക്കാം എന്നതിനെക്കുറിച്ചുള്ള നിരവധി ചർച്ചകൾ നാം കേൾക്കുന്നു ഇത് PDRF പോസ്റ്റ് ഡിസാസ്റ്റർ റിക്കവറി ഫ്രെയിംവർക്ക് നടപ്പിലാക്കുന്നതിനുള്ള നടപടികളാണ് ഇവ ഇവയാണ് അത് നടപ്പിലാക്കുന്നതിനുള്ള 6 ഘട്ടങ്ങൾ പുനർനിർമ്മാണത്തിന്റെ മാർഗ്ഗനിർദ്ദേശങ്ങളിലുള്ള നയങ്ങൾ മൊത്തത്തിൽ ഒരു ബിൽഡ് ബാക്ക് ബെറ്റർ സമീപനത്തെ പ്രതിഫലിപ്പിക്കുന്നു അവർ ഈ ആസ്പെക്ടുകളെ അഭിസംബോധന ചെയ്തു തീർച്ചയായും ഒരെണ്ണം ബിൽഡിംഗ് ആണ് അത് സുരക്ഷിതമായ ഒരു കെട്ടിട സമ്പ്രദായമാണ് അത് ഭൂകമ്പ പ്രതിരോധവുമായി പൊരുത്തപ്പെടേണ്ടതുണ്ട് പ്രധാന കാര്യങ്ങളിൽ ഒന്നാണിത് രണ്ടാമത്തേത് ഡീസെൻട്രലൈസേഷൻ ആണ് ഡീസെൻട്രലൈസേഷനും ഏകോപന സംവിധാനങ്ങളും തുടർന്ന് പ്രാദേശിക വിഭവങ്ങളുടെ ഉപയോഗം പ്രാദേശിക അധ്വാനം പ്രാദേശിക കഴിവുകൾ പ്രാദേശിക വസ്തുക്കൾ എന്നിവയുടെ ഉപയോഗം ആണ് ഇത് യഥാർത്ഥത്തിൽ സാമ്പത്തിക ചിലവും പ്രവർത്തനച്ചെലവും കുറയ്ക്കും കൂടാതെ മാനേജ്മെന്റ് നടപടിക്രമങ്ങൾക്ക് പോലും ഇത് എളുപ്പമായിരിക്കും ഇവിടെയാണ് നമ്മൾ സെൽഫ് ഡ്രിവൺ റീകൺസ്ട്രക്ഷനെ കുറിച്ച് സംസാരിക്കുന്നത് റിക്കവറി പ്രക്രിയയിലും പുനർനിർമ്മാണ പ്രക്രിയയിലും ആളുകളെ എങ്ങനെ ഉൾപ്പെടുത്താം അതുവഴി അവർക്ക് അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനാകും അതിനാൽ നമുക്ക് എങ്ങനെ ഡിആർആറിനെ വികസന പ്രക്രിയയിലേക്ക് മെയിൻസ്ട്രീംചെയ്യാം ഒപ്പം സ്റ്റേക്ക് ഹോൾഡറുകളെ എങ്ങനെ അണിനിരത്താം പിന്നെ ഗ്രാൻഡ് ഡിവിഷനിൽ ഒരു ഏകീകൃതത ഉണ്ടെന്ന് എങ്ങനെ ഉറപ്പാക്കാംനമ്മൾ അതിനെ GESI എന്ന് വിളിക്കുന്നു GESI യെ അഭിസംബോധന ചെയ്യുന്നത് പ്രത്യേകിച്ച് ദക്ഷിണേഷ്യൻ പശ്ചാത്തലത്തിൽ ലിംഗഭേദം സമത്വം സാമൂഹിക ഉൾപ്പെടുത്തൽ ഇവയെല്ലാം ഉൾപ്പെടുന്നു അതിനാൽ ഈ GESI ലിംഗപരമായ വശങ്ങളും സമത്വ വശങ്ങളും സാമൂഹിക ശ്രേണിയും എങ്ങനെ വികസന പ്രക്രിയയിൽ ഉൾപ്പെടുത്തണം വികസ്വര രാജ്യങ്ങളിലെ പ്രധാന വെല്ലുവിളികളിലൊന്നാണ് വികസന പ്രക്രിയ സാമൂഹിക തർക്കവും പ്രാദേശിക സംസ്കാരത്തിന് ദോഷം ഉണ്ടാക്കുന്ന പ്രവർത്തികളും ഒഴിവാക്കുന്നതിലൂടെ സാമൂഹിക ഐക്യം ഉണ്ടാക്കാം അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഗുഡ് വിൽ നിലനിർത്തുകനിർമ്മാണ സമയത്തെ നല്ല രീതികൾ പിന്തുടരുക പല കേസുകളിലും സംഭവിക്കുന്നത്NGO കൾ അല്ലെങ്കിൽ ചില ഏജൻസികൾ അല്ലെങ്കിൽ ഒരു സെറ്റപ്പ് മുന്നോട്ട് വരും അവർ 235 വർഷം ജോലി ചെയ്യുന്നു പിന്നെ അവർ അത് മുഴുവൻ ക്ലോസ് ചെയ്യുന്നു അതിനാൽഇതിൽ ഉള്ള പാഠങ്ങൾ എന്താണ്അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവർ സജ്ജീകരിച്ചിട്ടുള്ളത് ഇത് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു സുപ്രധാന സംവിധാനമാണ് നമുക്ക് അത് എങ്ങനെ സ്കേൽ അപ്പ് ചെയ്യാം തുടർന്ന് പുനർനിർമ്മാണ നയം പുനർനിർമ്മാണ നിയമം പുനർനിർമ്മാണ നിയമങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത മാർഗ്ഗനിർദ്ദേശങ്ങളും നടപടിക്രമങ്ങളും അംഗീകരിച്ചു അവിടെയാണ് NRA the നാഷണൽ റീകൺസ്ട്രക്ഷൻ അതോറിറ്റിനയത്തിലൂടെയോ നിയമത്തിലൂടെയോ നിയമങ്ങൾ വഴിയുള്ള പുനർനിർമ്മാണത്തിലൂടെയോ 4 പ്രധാന ആശങ്കകൾ മുമ്പോട്ട് വെക്കുന്നു അതിൽ ഒന്ന് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അപകടസാധ്യത ഉൾപ്പെടെയുള്ള ദുരന്തസാധ്യത മനസ്സിലാക്കുകയാണ് ഒന്ന്നിങ്ങൾ കാലാവസ്ഥാ വ്യതിയാനവും ഡിആർആറുമായും ലിങ്ക് ചെയ്യേണ്ടതുണ്ട് അത് ഒരു പ്രധാന ഘടകമാണ് കാരണം അപകടസാധ്യതയുള്ള ദുരന്തം അപകടസാധ്യത ഒരു പ്രത്യേക സ്ഥലത്തിന് പ്രത്യേകമാണ് എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം ഇത് സമയമെടുക്കുന്ന പ്രക്രിയയാണ്വളരെ ക്രമേണയുമാണ് കാരണവും അതിന്റെ ആഘാതവും ഒരു സ്ഥലത്ത് ആയിരിക്കണം എന്നില്ല കാരണം ഒരു സ്ഥലത്തും ആഘാതം മറ്റൊരു സ്ഥലത്തും ആയിരിക്കും അതിനാൽ സമഗ്രമായി ഒരാൾക്ക് ഈ മുഴുവൻ സമീപനവും എങ്ങനെ ബന്ധിപ്പിക്കാം എന്നത് പ്രധാന കാര്യമാണെന്ന് ഞാൻ കരുതുന്നു തുടർന്ന്റീ ബിൽഡിങ്ങിലുംറീ കൺസ്ട്രക്ഷനിലുംജനങ്ങളുടെ ഉപജീവനമാർഗ്ഗം ആവശ്യങ്ങൾ എന്നിവ അഭിസംബോധന ചെയ്യുന്നു റിക്കവറി പ്രക്രിയയിൽ പരമ്പരാഗത ഉപജീവനമാർഗങ്ങൾക്ക് എന്ത് സംഭവിക്കും നമുക്ക് എങ്ങനെ ഗ്രാമീണ ഉപജീവനമാർഗ്ഗം മെച്ചപ്പെടുത്താം വീണ്ടും റിക്കവറി പ്രക്രിയയിലെ ലിംഗഭേദവും സാമൂഹിക ഉൾപ്പെടുത്തലും ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്തു സ്ത്രീകളുടെ നേതൃത്വത്തെ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താംകാരണം മിക്ക നിരാലംബരായ സമൂഹങ്ങളിലും അത് ആവശ്യമാണ് എങ്ങനെ നമുക്ക് അത് സാധിക്കും അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ നാം ഈ അവസരം ഉപയോഗിക്കണം വികേന്ദ്രീകരണവും ഭരണവും അതായത് വിവരങ്ങൾ എങ്ങനെ കൈമാറപ്പെടുന്നു എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എങ്ങനെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നു കാര്യങ്ങൾ എങ്ങനെ മേൽനോട്ടം വഹിക്കുന്നു കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു തുടങ്ങിയവ ഉൾകൊള്ളുന്നു അതിനാൽ ഇവയെല്ലാം കേന്ദ്രീകൃത സമീപനത്തിനുപകരം വികേന്ദ്രീകൃത സമീപനങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇത് സർക്കാരും ദേശീയ പുനർനിർമ്മാണ ഏജൻസികളും മറ്റ് പങ്കാളികളും തമ്മിലുള്ള ഏകോപനവും സ്ഥാപനപരമായ സംവിധാനവുമാണ് അതേസമയംനമുക്ക് NRA സെൻട്രൽ ഓഫീസ് ഉണ്ട് സെക്ടറൽ മന്ത്രാലയവുമായും എൻജിഒ കേന്ദ്ര ഓഫീസുമായും ഇത് എങ്ങനെ ഏകോപിപ്പിക്കുന്നു ഇവിടെ ഇത് മന്ത്രാലയത്തോടൊപ്പം വകുപ്പിലേക്കും ജില്ലയിലേക്കും പ്രദേശത്തേക്കും സമൂഹത്തിലേക്കും വരുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ അത് ഒരു ഫണൽ ടൈപ്പ് പോലെ പോകുന്നു അതുപോലെ സെൻട്രൽ ഓഫീസ് മുതൽ സെക്രട്ടറിയൽ യൂണിറ്റ് ജില്ലാ തലം ജില്ലാ ഓഫീസ്ഏരിയ ഓഫീസ് മുനിസിപ്പാലിറ്റി എന്നിവ വരെയും കൂടാതെ കമ്മ്യൂണിറ്റി അടിസ്ഥാനമാക്കിയും വ്യക്തിഗതമായും അങ്ങനെയാണ് ഇവ ഈ ആസ്പെക്റ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് അതുപോലെ സെൻട്രൽ ഓഫീസ്ഡിസ്ട്രിക്റ്റ് ഓഫീസ് ഫീൽഡ് ഓഫീസ് എന്നിവയെല്ലാം മാക്രോ ലെവലിൽ നിന്നും മൈക്രോ ലെവലിലേക്ക് പോകുന്നു വീണ്ടും ഇവിടെ മാക്രോ ലെവലും അത് മൈക്രോ ലെവലിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നതും തമ്മിൽ ഒരു സീരിയസ് ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട് അതേപോലെ നാഷണൽ റീകൺസ്ട്രക്ഷൻ ഏജൻസി അതോറിറ്റി ഒരു സെൻട്രൽ ഓർഗനൈസേഷൻ എന്ന നിലയിൽ അവർക്ക് ഒരു സ്റ്റിയറിങ് കമ്മിറ്റി ഉണ്ടാവും അഡ്വൈസറി കൌൺസിൽl എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിക്കുന്ന അപ്പീൽ കമ്മിറ്റിഅങ്ങനെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടാവുന്നുസിഇഒ സെക്രട്ടേറിയറ്റും വിദഗ്ധ സംഘവുമായും ആശയവിനിമയം നടത്തുന്ന ഫെസിലിറ്റേഷൻ കമ്മിറ്റി അവർക്കുണ്ട് നിങ്ങൾക്ക് വ്യത്യസ്ത തീമാറ്റിക് ഗ്രൂപ്പുകളുണ്ട് സെക്രട്ടറിയാണ് കോഓർഡിനേറ്റിംഗ് ആസ്പെക്ട് അവർക്ക് അതിൽ വ്യത്യസ്ത പ്രോഗ്രാമുകൾ ഉണ്ട് ഒന്ന് ആസൂത്രണ നിരീക്ഷണ വികസന സഹായ ഏകോപന വിഭാഗ നയമാണ് ഇത് പൈതൃക സംരക്ഷണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പ്രത്യേകിച്ച് നേപ്പാളിലെ ദർബാർ സ്ക്വയർ അത് പൂർണ്ണമായും തകർത്തു നമുക്ക് എങ്ങനെ സംരക്ഷണം നൽകാൻ കഴിയും മൂന്നാമത്തെ ആസ്പെക്ട് സെറ്റിൽമെന്റ് ഡെവലപ്മെന്റ് ഹൌസിംഗും റോഡുകൾ പോലുള്ള പ്രാദേശിക അടിസ്ഥാന സൌകര്യങ്ങളും നോക്കുന്നു ഇത് പൂർണ്ണമായും സോഷ്യൽ മൊബിലൈസേഷനിൽ ആണ് മനുഷ്യനെയും വിഭവങ്ങളെയും നമുക്ക് എങ്ങനെ മൊബ് ലൈസ് ചെയ്യാം ഇവിടെയാണ് നമ്മൾ പൊതു കെട്ടിട വിഭാഗം പൈതൃക സംരക്ഷണം ഭൌതിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നത് ഇത് ഹൌസിംഗ് സെറ്റിൽമെന്റ് വികസനവും ഭൂവികസന ഭൂമിശാസ്ത്രവുമാണ് ശ്രദ്ധിക്കുന്നത് അങ്ങനെയാണ് ഈ മുഴുവൻ കാര്യങ്ങളും ഏകോപിപ്പിച്ചത് തുടർന്ന് ഇത് വിവിധ നയങ്ങൾ വിവര മാനേജ്മെന്റ് ബജറ്റ് വികസനം നിയമപരമായ തീരുമാനങ്ങൾ എച്ച്ആർ മാനേജ്മെന്റ് എന്നിങ്ങനെ കൂടുതൽ ശാഖകളായി വിഭജിക്കപ്പെടുന്നു അതിനാൽ ഇത് ഒരുതരം മരത്തിന്റെ ചുവട്ടിൽ രൂപം കൊള്ളുന്ന വൈവിധ്യമാർന്ന ശൃംഖലയാണ് അത് എങ്ങനെ വളരെയധികം വ്യക്തിഗത വകുപ്പുകളായി വികസിക്കുന്നു പിന്നീട് ഡിവിഷനുകളിൽ പിന്നീട് അതിന്റെ മേഖലകളിലേക്ക് അങ്ങനെയാണ് NRA യുടെ ഘടന ഇപ്പോൾ ജലസേചന പുനരധിവാസം മനസ്സിലാക്കാൻ അവർ സമൂഹങ്ങളെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതിന്റെ ചില ഉദാഹരണങ്ങൾ കാണാം ആദ്യം അവർക്ക് അവരുടെ വിളകൾ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും അവർക്ക് എങ്ങനെ വയലുകൾ സംരക്ഷിക്കാൻ കഴിയും തൊഴിലില്ലാത്ത യുവാക്കൾക്ക് മേസൺ പരിശീലനം നൽകി സമൂഹത്തെ മെച്ചപ്പെടുത്തി അങ്ങനെ അവർക്ക് ആ കഴിവുകൾ പഠിക്കാനും സ്വയം സഹായ ഭവന നിർമ്മാണ പ്രക്രിയയുടെ ഭാഗമാകാനും കഴിയും ശുചിത്വത്തെ കുറിച്ച് സ്ത്രീ ആരോഗ്യ പ്രവർത്തകർക്ക് അവബോധം നൽകി കാരണം വികസ്വര രാജ്യങ്ങളിൽ ശുചിത്വം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവർക്ക് ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഉണ്ടാവാറില്ലഅതിന് ചില മതപരമായ കാരണങ്ങളുണ്ടാകാം അതിനോട് ബന്ധപ്പെട്ട ചില സാമൂഹിക കാരണങ്ങളുമുണ്ടാകാം പക്ഷെ നമ്മൾ അവയെ എങ്ങനെ അണുവിമുക്തമാക്കണം സാനിറ്ററി നടപടിക്രമങ്ങൾ സ്വീകരിക്കേണ്ടതിനെ കുറിച്ചും അത് പിന്തുടരേണ്ടതിനെക്കുറിച്ചുംഅതിനു പ്രാധാന്യം നൽകേണ്ടതിനെ കുറിച്ചും നമ്മൾ അവരെ എങ്ങനെ ബോധവാന്മാരാക്കും പിന്നെ പ്രായമായവർക്ക് ഒരുതരം t ഷെൽട്ടർ ഉണ്ട് പക്ഷേ അവിടെ നോക്കിയാൽ ഒരുതരം താൽക്കാലിക ഷെഡ് കാണാം തകര ഷീറ്റുകളും ഗാൽവനൈസ്ഡ് ഷീറ്റുകളും അവർ സൂക്ഷിച്ചിരുന്നു അവർ വികസിപ്പിച്ചെടുത്ത പദ്ധതികളാണ് ഇത് ഇപ്പോൾ ഒന്നാമതായി ഉപകരണങ്ങൾക്കുള്ള ഫണ്ടോ മാനവ വിഭവശേഷിയോ ഈ ആവശ്യങ്ങൾ നിറവേറ്റാൻ പര്യാപ്തമല്ല കാരണം ആവശ്യങ്ങൾ വളരെ വലുതാണ് ഒന്ന് ഡിആർആറിന്റെ സങ്കീർണ്ണത അഭിസംബോധന ചെയ്യൽ കാലാവസ്ഥാ വ്യതിയാനം ലിംഗസമത്വം സാമൂഹിക ഉൾപ്പെടുത്തൽ എന്നിവ ഒരു പ്രധാന വെല്ലുവിളിയായി മാറുന്നു കാരണം ഈ ആവശ്യങ്ങളെ മേഖലാ വികസന പ്രക്രിയയിലേക്കും പരിപാടികളിലേക്കും നമുക്ക് മുഖ്യധാരയാക്കേണ്ടതുണ്ട് അതിനാൽ വളരെ സമഗ്രമായി നോക്കിയാൽഒരു മേഖലാ വികസനത്തിൽ ഒരു പരിപാടിയായി നാം വികസിപ്പിക്കേണ്ടതുണ്ടോ നമുക്ക് ധാരാളം ടൂളുകൾ ഉണ്ട് എന്നാൽ ഒരു സ്റ്റാൻഡേർഡ് സമീപനമോ ഒരു മെത്തോഡോളജിയോ പ്രയോഗിച്ചിട്ടില്ല അതിനാൽടൂൾസ് ഉണ്ടെങ്കിലും ഇത് ഒരു പ്രധാന പോരായ്മയാണ് എന്തുകൊണ്ടാണ് നമുക്ക് ഒരു തരത്തിലുള്ള സ്റ്റാൻഡേർഡ് സമീപനം ലഭിക്കാത്തത് NRA ക്കായി നല്ല ഘടനാപരമായ നിരീക്ഷണ പദ്ധതിയും വിവിധ തലങ്ങളിൽ ആവശ്യമാണ് കാരണം നമുക്ക് വ്യത്യസ്തമായ ഒരു സംഘടിത ഘടനയുണ്ടെങ്കിലും മോണിറ്ററിംഗ് പ്ലാനിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതിന് താഴത്തെ നിലയിലുള്ള യാഥാർത്ഥ്യങ്ങൾ അബിസംബോധന ചെയ്യാൻ കഴിയും നേപ്പാളിൽ എന്താണ് സംഭവിച്ചതെന്നും ഗവർണസ് പോയിന്റിൽ നിന്നുംഅതിന്റെതായ സജ്ജീകരണത്തിൽ നിന്നും ഈ ബിൽഡ് ബാക്ക് ബെറ്റർ എങ്ങനെ സ്വീകരിച്ചു എന്നതിനെക്കുറിച്ചും വളരെ ഹ്രസ്വമായ ഒരു ധാരണയാണ് നിങ്ങൾക്ക് ഇത് നൽകിയതെന്ന് ഞാൻ കരുതുന്നു നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് അവ എങ്ങനെ നിറവേറ്റാൻ പര്യാപ്തമായിരുന്നില്ല അതിനാൽ അവ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് ബിൽഡ് ബാക്ക് ബെറ്റർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് ഇത് നിങ്ങൾക്ക് ഒരു ചെറിയ അവലോകനം നൽകി